നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലെ സ്റ്റേറ്റ് വേരിയബിൾ വിശകലനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ കൂടുതൽ ചർച്ച തുടരും കൂടാതെ സ്റ്റേറ്റ് സമവാക്യത്തിൻറെ ചില സവിശേഷതകൾ മനസ്സിലാക്കാനും ശ്രമിക്കും സർക്യൂട്ട് വിശകലനത്തിൽ ആ സവിശേഷതകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കാണും അതിനാൽ ഇന്നത്തെ ക്ലാസിലെ ലെ ചർച്ച നമുക്ക് ആരംഭിക്കാം ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യങ്ങൾ എന്താണെന്ന് ആദ്യം മനസിലാക്കാൻ ശ്രമിക്കാം ലീനിയർ സിസ്റ്റങ്ങളുടെ പഠനത്തിന് ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് സമവാക്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് അവ നിർവചിക്കാം അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ നിന്ന് ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം എങ്ങനെ നേടാമെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം ഇനിപ്പറയുന്ന ഡിഫറൻഷ്യൽ സമവാക്യം വിവരിക്കുന്ന ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറെ സംവിധാനം നമുക്ക് പരിഗണിക്കാം ഡിഫറൻഷ്യൽ സമവാക്യം ഇങ്ങനെ നൽകിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ n m എന്ന് നമ്മൾ അനുമാനിക്കുന്നു ഇപ്പോൾ ഒരു ഓപ്പറേറ്ററെ നിർവചിക്കാം അതാണ് നിങ്ങളുടെ ലാപ്ലേസ് ഓപ്പറേറ്റർ ഇപ്പോൾ നിങ്ങൾ അത് മുകളിലുള്ള സമവാക്യത്തിലേക്ക് ഇടുകയാണെങ്കിൽ മുകളിലുള്ള ഡിഫറൻഷ്യൽ സമവാക്യവും അടുത്ത് നമ്മൾ കണ്ടതും ലാപ്ലേസ് പരിവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എഴുതാം അതിനാൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക ഡിഫറൻഷ്യൽ സമവാക്യം എഴുതുന്നതിനുപകരം നമുക്ക് ഉണ്ടാകും പരാൻതീസിസിൽ നിന്ന് നമ്മൾ പൊതുവായ പുറത്തെടുക്കും പരാൻതീസിസിനുള്ളിൽ നമുക്ക് ഉണ്ട് വലതുവശത്ത് സമാനമായി ഉണ്ട് കാരണം വലതുവശത്തെ പദങ്ങളിലും പൊതുവായതാണ് ഇപ്പോൾ ഇതിലെ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം എന്താണ് സിസ്റ്റത്തിൻറെ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം ഇടത് ഭാഗമായി നിർവചിച്ചിരിക്കുന്നു അതിനാൽ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം എന്ന് എഴുതുന്നു സമവാക്യത്തിൻറെ ഹോമോജീനിയസ് ഭാഗം ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം നേടുന്നു ഹോമോജീനിയസ് എന്നാൽ നിങ്ങൾ ഇൻപുട്ട് 0 ആയി സജ്ജമാക്കുക എന്നാണ് അതിനാൽ നിങ്ങൾക്ക് സമവാക്യത്തിൻറെ ഹോമോജീനിയസ് ഭാഗം 0 ആയി ലഭിക്കും ഇതുപയോഗിച്ച് നിങ്ങൾക്ക് സിസ്റ്റത്തിൻറെ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം ലഭിക്കുന്നു ഇത് ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ ഗുണകങ്ങളല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ ഇൻപുട്ട് 0 ആയി ചേർക്കുമ്പോൾ സിസ്റ്റത്തിൻറെ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം നിങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം എങ്ങനെ കണ്ടെത്താം ഇപ്പോൾ ഡിഫറൻഷ്യൽ സമവാക്യം നൽകിയ സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിക്കാം മുമ്പത്തെ കേസിൽ കണ്ട അതേ ഡിഫറൻഷ്യൽ സമവാക്യം ഇപ്പോൾ ഇതിൻറെ ലാപ്ലേസ് പരിവർത്തനം ഇതിന് തുല്യമാണെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ എന്താണ് ഇത് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ ഇത് സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻറെ ഡിനോമിനേറ്റർ പോളിനോമിയലിനെ 0 എന്നതിന് തുല്യമാക്കി നിങ്ങൾക്ക് നേടാനാകുന്ന ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം അതിനാൽ നിങ്ങൾ ഇത് 0 ന് തുല്യമായി സജ്ജമാക്കും അതിനാൽ ഇത് സിസ്റ്റത്തിൻറെ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം അല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല

ഇപ്പോൾ മൂന്നാമത്തെ കേസ് സ്റ്റേറ്റ് സമവാക്യത്തിൽ നിന്ന് ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം കണ്ടെത്തണം അതിനാൽ സ്റ്റേറ്റ് വേരിയബിൾ സമീപനത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്റ്റേറ്റ് വേരിയബിൾ കോഫിഫിഷ്യന്റ് മെട്രിക്സും ട്രാൻസ്ഫർ ഫംഗ്ഷനും തമ്മിലുള്ള ബന്ധം ഇനിപ്പറയുന്നതാണെന്ന് നമ്മൾ കണ്ടെത്തി അതിനാൽ സ്റ്റേറ്റ് വേരിയബിളിൽ നിന്നുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷന് നമുക്ക് എന്ന് ലഭിക്കും ഇപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻറെ ഡിനോമിനേറ്റർ നിങ്ങൾ 0 ന് തുല്യമായി സജ്ജമാക്കുകയാണെങ്കിൽ സിസ്റ്റത്തിൻറെ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൻറെ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം നൽകും എന്നാണ് ഇതിനർത്ഥം ഇപ്പോൾ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യത്തിൻറെ പ്രധാന സ്വഭാവം എ യുടെ ഗുണകങ്ങളാണെങ്കിൽ അത് കോയഫിഷ്യന്റ് മട്രിക്സ് ആണ് അതിനാൽ A യുടെ ഗുണകം വാസ്തവികസംഖ്യ ആണെങ്കിൽ യുടെ ഗുണകവും വാസ്തവികസംഖ്യ ആയിരിക്കും ഇപ്പോൾ ഈഗൻ വാല്യുകൾ എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം അതിനാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത സ്വഭാവ സമവാക്യത്തിൻറെ മൂലസംഖ്യകളെ മാട്രിക്സ് എ യുടെ ഈഗൻ വാല്യുകളായി പരാമർശിക്കുന്നു അതിനാൽ ഈഗൻ വാല്യുകളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് അതിനാൽ എ യുടെ ഗുണകങ്ങൾ എല്ലാം വാസ്തവികസംഖ്യ ആണെങ്കിൽ അതിൻറെ ഈഗൻ വാല്യുകൾ വാസ്തവികസംഖ്യയോ കോംപ്ലക്സ് സമുച്ചയപദ ജോഡികളോ ആയിരിക്കും ഇപ്പോൾ എന്നിവ A യുടെ ഈഗൻ വാല്യുകളാണെങ്കിൽ A യുടെ ട്രെയ്സ് ഇങ്ങനെ എഴുതാം എന്താണ് ഇതിനർത്ഥം അതിനർത്ഥം എ മാട്രിക്സിൻറെ ട്രെയ്സ് എ യുടെ എല്ലാ ഈഗൻ വാല്യുകളുടെയും ആകെത്തുകയാണ് ഇപ്പോൾ എ യുടെ ഈഗൻ വാല്യു ആണെങ്കിൽ അത് i 1 2 n N ഈഗൻ വാല്യുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരെയുള്ള ഈഗൻ വാല്യുകൾ ലഭിക്കും ഇപ്പോൾ ഇത് A യുടെ ഒരു ഈഗൻ വാല്യു ആണെങ്കിൽ അത് ൻറെയും ഒരു ഈഗൻ വാല്യു ആണ് അതിനാൽ നിങ്ങൾ മാട്രിക്സിൻറെ ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ ഈഗൻ വാല്യുകൾ അതേപടി തുടരും ഇപ്പോൾ മാട്രിക്സ് എ നോൺ സിംഗുലാർ ആണെങ്കിൽ അതിന് എന്ന ഈഗൻ വാല്യു കളുണ്ടെന്നും കണ്ടാൽ ൻറെയും ഈഗൻ വാല്യു ആണ് അവ അതിനാൽ നിങ്ങളുടെ വിവിധ വിശകലനത്തിൽ ഉപയോഗിക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ട സവിശേഷതയാണ് A യുടെ ഈഗൻ വാല്യുകൾ കണക്കാക്കുമ്പോൾ ആ ഈഗൻ വാല്യുകകളുടെ റേസിപ്രോക്കൽ ൻറെ ഈഗൻ വാല്യുകളായിരിക്കുമെന്ന് നാം ഓർമ്മിക്കേണ്ടതാണ് ഇപ്പോൾ ഈഗൻ വാല്യുവിൻറെ പ്രാധാന്യം എന്താണ് നിങ്ങൾക്ക് ഒരു സീരീസ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൻറെ പ്രതികരണം നിർണ്ണയിക്കാൻ ഈ ഈഗൻ വാല്യുകൾ സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ സ്റ്റേറ്റ് വേരിയബിൾ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഈഗൻ വാല്യുകൾ കണ്ടെത്തുകയും ചെയ്താൽ സിസ്റ്റത്തിൻറെ പ്രതികരണം കണ്ടെത്താൻ ഈ ഈഗൻ വാല്യുകൾ നിങ്ങളെ സഹായിക്കും ഈഗൻ വാല്യുകൾ S പ്ലെയിനിൻറെ ഇടതുവശത്ത് ഉണ്ടെങ്കിൽ അതിനർത്ഥം അവയ്ക്ക് റിയൽ ഘടകം നെഗറ്റീവ് ആണ് എന്നാണ് അതിനർത്ഥം സിസ്റ്റം സ്ഥിരതയുള്ളതാണെന്നാണ് ഇപ്പോൾ സിസ്റ്റത്തിൻറെ പ്രതികരണം പരമാവധി ഉള്ള സിസ്റ്റത്തിൻറെ ആവൃത്തി കണ്ടെത്തുന്നതിനും ഈഗൻ വാല്യുകൾ ഉപയോഗിക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഈ ആവൃത്തികളെ ഈഗൻ ആവൃത്തികൾ എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് ഈഗൻ വെക്ടറുകളെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഇനിപ്പറയുന്ന മട്രിക്സ് സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നോൺ സീറോ വെക്റ്റർ എന്ന് പറയുക അപ്പോൾ എന്താണ് അവസ്ഥ അതിനാൽ ഇത് തൃപ്തികരമാണെങ്കിൽ മട്രിക്സ് A യുടെ ഈഗൻ വെക്ടറായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ ഈഗൻ വെക്ടറുകളുടെ ഉപയോഗം എന്താണ് ലീനിയർ പരിവർത്തനം മനസ്സിലാക്കാൻ ഈഗൻ വെക്ടറുകൾ ഉപയോഗിക്കുന്നു അതായത് XY പ്ലൈനിൽ വെക്റ്റർ നീട്ടി കംപ്രസ് ചെയ്യുകയാണെങ്കിൽ XY പ്ലെയിൻ ലെ വെക്റ്ററിൻറെ ദിശ മാറുകയില്ല അതിനാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈഗൻവെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്റ്ററിൻറെ ദിശ മാറ്റാതെ വെക്റ്ററിനെ മുകളിലേക്കും താഴേക്കും സ്കെയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ സിസ്റ്റത്തിൻറെ പ്രതികരണം പരമാവധി എവിടെയാണെന്നും ഈഗൻവെക്ടറുകൾ ആ പരമാവധി പ്രതികരണത്തിൻറെ ദിശ നൽകുന്നു അതിനാൽ ഈഗൻവാല്യുകളെയും ഈഗൻവെക്ടറുകളെയും നിങ്ങൾ പരസ്പരബന്ധിതമാക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഈഗൻവാല്യുകളും ഈഗൻവെക്ടറുകളും മനസിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് സമവാക്യം പരിഗണിക്കാം അതായത് t ഇപ്പോൾ ഇതിന് കോഫിഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടെങ്കിൽ A യുടെ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യം ആയിരിക്കും അതിനാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇത് 0 ന് തുല്യമാക്കേണ്ടതുണ്ട് എന്നിട്ട് പരിഹരിച്ചാൽ നിങ്ങൾക്ക് എന്നിങ്ങനെ ഈഗൻവാല്യുകൾ ലഭിക്കും ഇപ്പോൾ ഓരോ ഈഗൻവാല്യുവിലും രണ്ട് ഈഗൻവെക്ടറുകൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുക അതിനാൽ രണ്ട് ഈഗൻവെക്ടറുകളുണ്ടെന്ന് കരുതുക ഇപ്പോൾ നമുക്ക് ആദ്യം എന്ന് പരിഗണിക്കാം തുടർന്ന് എന്നിവ ഈഗൻവെക്ടറുകളുടെ ക്യാരക്ക്റ്ററിസ്റ്റിക് സമവാക്യത്തിലേക്ക് ഇടുക അതിനാൽ നിങ്ങൾ ആ മൂല്യം നൽകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മൂല്യം അതിനാൽ അനിയന്ത്രിതമാണ് ഈ സാഹചര്യത്തിൽ 1 ന് തുല്യമായി സജ്ജീകരിക്കാം അതുപോലെ ന് സമവാക്യം അതിനാൽ രണ്ടാമത്തെ സമവാക്യത്തിന് അർത്ഥമില്ല അതിനാൽ നമുക്ക് എന്ന ഒരു സമവാക്യം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സമവാക്യവും രണ്ട് അജ്ഞാതവും മാത്രമേ ഉള്ളൂ അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും ഒന്നിൻറെ മൂല്യം നമ്മൾ സജ്ജമാക്കി രണ്ടാമത്തെൻറെ മൂല്യം കണ്ടെത്തും അതിനാൽ നമുക്ക് 2 എന്ന് അനുമാനിക്കാം അതിനാൽ ആ സാഹചര്യത്തിൽ അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്നീ ഈഗൻ വാല്യുവിനോട് യോജിക്കുന്ന p1 p2 എന്നിവ ഈഗൻ വെക്ടറുകൾ ആയി ലഭിച്ചു ഇപ്പോൾ കൺട്രോളബിലിറ്റി എന്ന മറ്റൊരു ആശയം മനസിലാക്കാൻ ശ്രമിക്കാം ഒരു നിശ്ചിത വസ്തുനിഷ്ഠമായ അനന്ത സമയത്തിലേക്ക് എത്താൻ ഓരോ പ്രക്രിയയുടെ സ്റ്റേറ്റ് വേരിയബിളിനെയും നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ പ്രക്രിയ പൂർണ്ണമായും നിയന്ത്രിക്കാനാകുമെന്ന് പറയപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഒരേ വസ്തുനിഷ്ഠമായ അനന്ത തവണ ആവർത്തിക്കുകയാണെങ്കിൽ സിസ്റ്റത്തിലേക്ക് കണക്റ്റുചെയ്യാത്ത ചില നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിയന്ത്രണ ഔട്ട്പുട്ട് ലഭിക്കും അതിനാൽ ഇത് u നിയന്ത്രണ ഇൻപുട്ടാണെന്ന് നമുക്ക് പറയാം അതിനാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ ഒന്നിലധികം തവണ എത്താൻ പ്രക്രിയയുടെ ഓരോ സ്റ്റേറ്റ് വേരിയബിളിനെയും നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രക്രിയ പൂർണ്ണമായും നിയന്ത്രിക്കാനാകുമെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഈ സ്റ്റേറ്റ് വേരിയബിളുകളിലേതെങ്കിലും നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമാണെങ്കിൽ u എന്ന സ്റ്റേറ്റ് വേരിയബിളിനെ ഓടിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗവും ഉണ്ടാകില്ല കാരണം സ്റ്റേറ്റ് വേരിയബിൾ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമാണ് അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും നിയന്ത്രണ ശ്രമത്തിലൂടെ പ്രത്യേക സ്റ്റേറ്റ് വേരിയബിളിനെ ആവശ്യമുള്ള സ്റ്റേറ്റ് ലേക്ക് അനന്തമായ സമയത്തേക്ക് നയിക്കുന്നതിനുള്ള ഒരു മാർഗവും ഉണ്ടാകില്ല കാരണം ഈ സ്റ്റേറ്റ് വേരിയബിളിനെ ഇൻപുട്ട് uക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ നിയന്ത്രണാതീതമായ ഒരു അവസ്ഥയെങ്കിലും ഉള്ളിടത്തോളം കാലം സിസ്റ്റം പൂർണ്ണമായും നിയന്ത്രിക്കാനാവില്ലെന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ അനിയന്ത്രിതമെന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന നിയന്ത്രണക്ഷമത എന്ന ആശയം സ്റ്റേറ്റുകളെ സൂചിപ്പിക്കുന്നു ഇതിനെ സ്റ്റേറ്റ് നിയന്ത്രണാത്മകത എന്ന് വിളിക്കുന്നു സ്റ്റേറ്റ്ൻറെ കാര്യത്തിൽ നിങ്ങൾ നിയന്ത്രണക്ഷമത നിർവചിക്കുന്നതിനാൽ ഇതിനെ സ്റ്റേറ്റ് കൺട്രോളബിലിറ്റി എന്ന് വിളിക്കുന്നു ഇപ്പോൾ സിസ്റ്റത്തിൻറെ ഔട്ട്പുട്ടുകൾക്കും നിയന്ത്രണക്ഷമത നിർവചിക്കാം ഇവിടെ ഈ സാഹചര്യത്തിൽ നിയന്ത്രണത്തിനുള്ള സ്റ്റേറ്റുകളെ നിങ്ങൾ പരിഗണിച്ചു നിയന്ത്രണത്തിനുള്ള ഔട്ട്പുട്ട് നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഞങ്ങൾ അതിനെ ഔട്ട്പുട്ട് കൺട്രോളബിലിറ്റി അവസ്ഥ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നമുക്ക് സിസ്റ്റം പരിഗണിക്കാം നമുക്ക് സ്റ്റേറ്റ് സമവാക്യവും ഔട്ട്പുട്ട് സമവാക്യവുമുണ്ട് അതാണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റും ഔട്ട്പുട്ട് സമവാക്യവും

ഇപ്പോൾ x എന്നത് n × 1 സ്റ്റേറ്റ് വെക്റ്ററും u എന്നത് r × 1 ഇൻപുട്ട് വെക്ടറും y എന്നത് p × 1 ഔട്ട്പുട്ട് വെക്ടറുമാണ് എ ബി സി ഡി എന്നിവ ഉചിതമായ അളവുകളുടെ ഗുണകങ്ങളാണ് ഇപ്പോൾ നിയന്ത്രണക്ഷമത കണ്ടെത്തുന്നതിന് നിങ്ങൾ ഈ രണ്ട് സമവാക്യങ്ങളും ഉപയോഗിക്കും ഇപ്പോൾ ഇനിപ്പറയുന്ന സിദ്ധാന്തം നിയന്ത്രണത്തിൻറെ അവസ്ഥ സിസ്റ്റത്തിൻറെ കോഫിഫിഷ്യന്റ് മെട്രിക്സായ എ ബി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്നു നമ്മൾ പ്രത്യേകിച്ചും സ്റ്റേറ്റ് നിയന്ത്രണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാലാണ് നിയന്ത്രണാത്മക വിശകലനത്തിനായി എ ബി മെട്രിക്സുകൾ പരിഗണിക്കുന്നത് ഇപ്പോൾ പ്രമേയം സ്റ്റേറ്റ് നിയന്ത്രണത്തിനുള്ള പരിശോധന രീതിയും നൽകുന്നു എന്താണ് പ്രമേയം സ്റ്റേറ്റ് സമവാക്യം വിവരിച്ച സിസ്റ്റത്തിന് എന്ന് സിദ്ധാന്തം പറയുന്നു അതിനാൽ ഈ സിസ്റ്റം പൂർണ്ണമായും സ്റ്റേറ്റ് നു നിയന്ത്രിക്കാവുന്നതാണ് അത് ആവശ്യമായതും മതിയായതുമായ അവസ്ഥയാണ് ഇനിപ്പറയുന്ന മട്രിക്സ് അതായത് n × nr അളവുള്ള S നിയന്ത്രണ ഘടക മട്രിക്സ് B A മട്രിക്സ് എന്നിവ അടങ്ങിയ മട്രിക്സിനെ ഘടകമായി ഉൾക്കൊള്ളുന്നു അതിനാൽ ഇനിപ്പറയുന്ന S മാട്രിക്സിന് n ന് തുല്യമായ റാങ്ക് ഉള്ളതിനാൽ ഈ നിബന്ധന ആവശ്യമാണ് അപ്പോൾ എന്താണ് കൺട്രോളബിലിറ്റി മാട്രിക്സ് S അതിനാൽ കൺട്രോളബിലിറ്റി മാട്രിക്സ്

ഈ മട്രിക്സിൻറെ റാങ്ക് നമ്മൾ കണ്ടെത്തുന്നു കൂടാതെ ഈ മട്രിക്സിൻറെ റാങ്ക് n ന് തുല്യമല്ലെങ്കിൽ അതിന് സിസ്റ്റം സ്റ്റേറ്റ് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് കാണിക്കുന്നു ഇപ്പോൾ എ ബി എന്നീ മെട്രിക്സുകൾ ഈ പ്രത്യേക കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ എബി ജോഡി നിയന്ത്രിക്കാനാകുമെന്ന് നമ്മൾ ചിലപ്പോൾ പറയുന്നു ഇത് നിയന്ത്രണക്ഷമതയ്ക്കായി മാട്രിക്സ് വർദ്ധിപ്പിച്ച S ന് തുല്യമായ റാങ്ക് n ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അതുവഴി നമ്മൾ സ്റ്റേറ്റ് നിയന്ത്രണ വ്യവസ്ഥ എങ്ങനെ കണ്ടെത്തുമെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കോയഫിഷ്യന്റ് മെട്രിക്സുള്ള ഒരു മൂന്നാം ഓർഡർ സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് പരിഗണിക്കാം ഇപ്പോൾ നമുക്ക് A ഉള്ളത് n x n ഉം ഇത് n x 1 ഉം ആയതിനാൽ ഈ കേസിലെ മാട്രിക്സ് ൻറെ n 3 ആണ് അതിനാൽ കൺട്രോളബിലിറ്റി മാട്രിക്സ്ൽ ഇപ്പോൾ 3 നിരകളുണ്ടാകും അതിനാൽ ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ആദ്യം S മാട്രിക്സ് കംപൈൽ ചെയ്യും എങ്ങനെ സമാഹരിക്കും നമ്മൾ കണ്ടെത്തും ഇപ്പോൾ നിങ്ങൾ ഈ പ്രത്യേക മാട്രിക്സിനെ സൂക്ഷ്മമായി നോക്കിയാൽ രണ്ടാമത്തെ വരിയിൽ എല്ലാ ഘടകങ്ങളും 0 ആണെന്ന് കാണാം അതിനർത്ഥം മട്രിക്സ് S ൻറെ റാങ്ക് 3 ൽ കുറവാണെന്നും ഇത് സിംഗുലാരുംമായതിനാൽ മാട്രിക്സിൻറെ റാങ്ക് 3 ൽ കുറവായിരിക്കുന്നു ഒരു കേസ് ഉണ്ടാകും അതിനാൽ ഈ സിസ്റ്റത്തിന് സ്റ്റേറ്റിനെ നിയന്ത്രിക്കാനാവില്ല അതിനാൽ സിസ്റ്റത്തിൻറെ നിയന്ത്രണക്ഷമത എങ്ങനെ കണ്ടെത്താമെന്ന ഒരു ആശയം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ലീനിയർ ഒബ്സെർവബലിറ്റി എന്ന മറ്റൊരു ആശയം നമുക്ക് മനസ്സിലാക്കാം സിസ്റ്റത്തിൻറെ ഓരോ സ്റ്റേറ്റ് വേരിയബിളും ചില ഔട്ട്പുട്ടുകളെ ബാധിക്കുന്നുവെങ്കിൽ ഇപ്പോൾ സിസ്റ്റം പൂർണ്ണമായും നിരീക്ഷിക്കാനാകും അതിനർത്ഥം ഔട്ട്പുട്ട് അളവുകളിൽ നിന്ന് സ്റ്റേറ്റ് നെ നിരീക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ഒബ്സെർവബൽ അല്ലെന്നും അതിനാൽ സിസ്റ്റം അൺ ഒബ്സെർവബൽ എന്ന് പറയപ്പെടുന്നു സിസ്റ്റത്തിൻറെ ഒബ്സെർവബലിറ്റി കണ്ടെത്തുന്നതിനുള്ള മാനദണ്ഡം എന്താണ് അതിനാൽ സ്റ്റാൻഡേർഡ് സമവാക്യം വിവരിച്ച സിസ്റ്റത്തിന് സ്റ്റേറ്റ് സമവാക്യവും ഔട്ട്പുട്ട് സമവാക്യവും പൂർണ്ണമായും നിരീക്ഷിക്കാനാകും ഇനിപ്പറയുന്ന മാട്രിക്സ് V n X np മട്രിക്സ് ആണ് നിരീക്ഷണക്ഷമത മട്രിക്സിന് n ന് തുല്യമായ റാങ്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യവും പര്യാപ്തവുമാണ് ഒബ്സെർവബലിറ്റി മാട്രിക്സ് നിങ്ങൾ എങ്ങനെ കംപൈൽ ചെയ്യും നമ്മൾ കംപൈൽ ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഈ മട്രിക്സ് കംപൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒബ്സെർവബലിറ്റി മട്രിക്സ് ലഭിക്കും അത് n × np ആയിരിക്കും ഇപ്പോൾ ഈ മട്രിക്സിൻറെ റാങ്ക് കണ്ടെത്തുകയും ഈ റാങ്ക് n നേക്കാൾ കുറവായിരിക്കുകയും ചെയ്യുമ്പോൾ സിസ്റ്റം നിരീക്ഷിക്കാനാവില്ല അല്ലെങ്കിൽ റാങ്ക് n ന് തുല്യമാകുമ്പോൾ സിസ്റ്റം നിരീക്ഷിക്കാവുന്നതാണെന്ന് നിങ്ങൾ പറയും ഇപ്പോൾ ഒരു ഉദാഹരണത്തിൻറെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാം അതിനാൽ A C എന്നീ രണ്ട് മെട്രിക്സുകളും അടങ്ങിയിരിക്കുന്ന അവസ്ഥയെ നമ്മൾ സാധാരണയായി A C ജോഡി എന്ന് വിളിക്കുന്നു C ഒരു 1 × n മാട്രിക്സ് ആണെന്നും സിസ്റ്റത്തിന് ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ വെങ്കിൽ V ഒരു n × n ചതുര മാട്രിക്സാണ് അത്തരം സന്ദർഭങ്ങളിൽ V നോൺ സിംഗുലാർ ആണെങ്കിൽ സിസ്റ്റം പൂർണ്ണമായും നിരീക്ഷിക്കാനാകും അതിനാൽ സിസ്റ്റം നിരീക്ഷിക്കാനാകുമോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം നമുക്ക് കോയഫിഷ്യന്റ് മട്രിക്സ് പരിഗണിക്കാം ഇപ്പോൾ നമുക്ക് n 2 ഉണ്ട് അതിനാൽ ഇപ്പോൾ ഒബ്സെർവബലിറ്റി മാട്രിക്സിൽ രണ്ട് വരികളുണ്ടാകും ഇപ്പോൾ നിങ്ങൾ ഈ മാട്രിക്സ് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നിരയ്ക്ക് എല്ലാ ഘടകങ്ങളും 0 ആയി ഉണ്ടെന്ന് കാണും അതായത് ഈ മാട്രിക്സും സിംഗുലാർ ആണ് അങ്ങനെയാകുമ്പോൾ സിസ്റ്റം നിരീക്ഷിക്കാനാവില്ലെന്ന് നിങ്ങൾ പറയും അല്ലെങ്കിൽ A C ആയ മാട്രിക്സ് ജോഡി സംരക്ഷിക്കാനാവില്ലെന്ന് നമുക്ക് പറയാം അതിനാൽ V എന്ന വർദ്ധിച്ച മെട്രിക്സ് ഉപയോഗിച്ച് ഒരു ലീനിയർ സിസ്റ്റത്തിൻറെ ഒബ്സെർവബലിറ്റി നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ ഇതുപയോഗിച്ച് സ്റ്റേറ്റ് വേരിയബിൾ സിസ്റ്റത്തിൻറെ നിയന്ത്രണക്ഷമതയെക്കുറിച്ചും നിരീക്ഷണത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ്സ് അവസാനിപ്പിക്കാം അതിനാൽ സ്റ്റേറ്റ് വേരിയബിൾ വിശകലനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ പ്രത്യേക വിഷയം നമ്മൾ നിർത്തുകയാണ് അടുത്ത സെഷനിൽ അവസാന വിഷയം ആയ സമധർമ്മ സിസ്റ്റത്തെ കുറിച്ച് ചർച്ച ആരംഭിക്കാം